അതിനാൽ പുസ്തകത്തിൽ ഇത് ചെയ്യുന്നതിന് മൂന്ന് പ്രസിദ്ധമായ മാർഗങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ വയർ ഇതാ ഞാൻ ഒരു ചെറിയ വിടവ് ഡെൽറ്റ ഉപയോഗിച്ച് വിഭജിക്കാൻ പോകുന്നു കുറച്ച് വോൾട്ടേജ് നൽകുന്ന ഒരു ജനറേറ്ററിലേക്ക് ഞാൻ ഇത് ബന്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് പറയാം ഈ ദൂരം അതിനാൽ നിങ്ങളുടെ RF ജനറേറ്റർ എടുത്ത് ഈ വയറിന്റെ മധ്യത്തിൽ പ്ലഗ് ചെയ്യുക അത് സൃഷ്ടിക്കാൻ പോകുന്നു ഒരു ഇപ്പോൾ ഓർക്കുക ഇത് DC അല്ല ശരിയല്ലേ നിങ്ങൾ പ്രസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആവൃത്തിയിൽ ചാഞ്ചാടുന്ന ഒരു വോൾട്ടേജായിരിക്കും ഇത് അതിനാൽ ഈ സെഗ്മെന്റിനുള്ളിലെ ഇൻസിഡന്റ് ഫീൽഡ് എനിക്കറിയുമോ അതെ ശരി അത് എന്താണ് അതെ അതാണ് കൂടാതെ ഇവിടെ എന്താണ് ഡെൽറ്റ വിടവിന് പുറത്ത് അതിനാൽ ഞാൻ ഇത് മുറിക്കുകയാണ് അതിനാൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഉപഭാഗത്തെ ഭാഗങ്ങളായി മുറിക്കാൻ പോകുന്നു സമയം കാണുക 0130 അപ്പോൾ എന്താണ് ഇവിടെ ഇൻസിഡന്റ് ഫീൽഡ് വോൾട്ടേജ് ഉറവിടം ഇല്ല അത് 0 ആണ് കാരണം ആ സെഗ്മെന്റിലുടനീളം വോൾട്ടേജ് ജനറേറ്ററിനെ ഞാൻ ബന്ധിപ്പിച്ചിട്ടില്ല ഇത് ഒരു ഇൻസിഡന്റ് ഫീൽഡ് ഉണ്ടാക്കും വോൾറ്റേജിന് കുറുകെ മാത്രം അത് വയറിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് എല്ലായിടത്തും ഇല്ല അതിനാൽ ഇവിടെ 0 ആണ് അതിനാൽ ഇതുപോലെയുള്ള കണ്ടക്ടർ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഞാൻ കണ്ടക്ടറെ വേർതിരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കരുത് ഒരു കണ്ടക്ടറും അതിന്റെ മധ്യത്തിൽ ഒരു RF ജനറേറ്ററും രണ്ടും പ്ലസ് അല്ലെങ്കിൽ മൈനസ്സിലേക്ക് നയിക്കുന്നു അതെ നമ്മൾ രണ്ട് പോയിന്റുകൾ എടുക്കുന്നു ആ രണ്ട് പോയിന്റുകളിലുടനീളം നിങ്ങൾ ഇത് ബന്ധിപ്പിക്കുന്നു കൂടാതെ അതുകൊണ്ടാണ് ഇത് ഇവിടെ ബന്ധിപ്പിക്കുന്നത് പോലെയുള്ള ലീഡുകൾ ചില ഡെൽറ്റ വിടവിൽ വേറെ ബന്ധിപ്പിക്കുന്നത് ഇവിടെ ഞാൻ കാണിച്ചുതന്നത് അതെ കറന്റിൽ ഒരു വിടവും ഇല്ല വിദ്യാർത്ഥി e i 0 യിൽ മുകളിലെ സെഗ്മെന്റുകളിൽ അതെ അതാണ് സ്റ്റാറ്റിക്സ് അപ്പ്രോക്സിമേഷൻ എന്ന് നമ്മൾ വീണ്ടും പറയണം ശരി ഇത് നമ്മളുടെ മാതൃകയാണ് ഇത് കൃത്യമാവാൻ പോകുന്നില്ലെന്ന് ഓർക്കുക പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും സാമ്യമുള്ള ഫലം തരുന്ന ഒരു മോഡൽ ആണ് ഇത് വിദ്യാർത്ഥി അത് ആകാൻ ആഗ്രഹിക്കുന്നു ദൈർഘ്യം അത് വീണ്ടും പറയുക വിദ്യാർത്ഥി നീളം വിദ്യാർത്ഥി മറ്റൊന്ന് വിദ്യാർത്ഥി പിന്നെ അപ്പോൾ അത് ഇക്വിപോട്ടൻഷ്യൽ അല്ല അതെ എങ്കിൽ നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ സിദ്ധാന്തത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുപോകേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കാരണമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഈ വോൾട്ടേജ് കാരണം ഇപ്പോൾ അവിടെ കറന്റ് ഉണ്ടാവും വയറിൽക്കൂടി പ്രവഹിക്കാൻ പോകുന്ന ഒരു കറന്റ് ഉണ്ടാകാൻ പോകുന്നു കൂടാതെ വയറിൽ ഇൻഡ്യൂസ്ഡ് ആയ വയർ കറന്റ് വേറെ ഒരു സ്കാറ്റേർഡ് ഫീൽഡ് ഉത്പാദിപ്പിക്കാൻ പോകുന്നു അതാണ് നമ്മൾ കണക്കാക്കികൊണ്ടിരുന്നത് കൂടാതെ കണ്ടക്ടറിൽ അവ ഒന്നിച്ച് 0 ആണ് അതിനാൽ ഇത് നിങ്ങളുടെ ഡെൽറ്റ വിടവാണ് ഇത് പ്രയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് കാരണം നമുക്ക് വിടവിലെ മൂല്യങ്ങളും മറ്റെല്ലായിടത്തും 0 കാണാനാകും അതിനാൽ നിങ്ങളുടെ പക്കലുള്ള ഈ കോളം വെക്റ്റർ വ്യത്യസ്ത കോളം വെക്റ്റർ ആണ് അതിനാൽ ഈ സെഗ്മെന്റിന്റെ മധ്യഭാഗം നിങ്ങൾ ഈ മൂല്യത്തിൽ ഇടുന്ന മറ്റെല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ 0 ഇടുന്നു അത് പ്രയോഗിക്കുന്നത് വളരെ ലളിതമാണ് രണ്ടാമത്തെ കാര്യം ഗ്രൌണ്ട് പ്ലെയിൻ പോലെയുള്ള ഈ മാഗ്നറ്റിക് ഫ്രില്ലിനെ എന്താണ് വിളിക്കുന്നത് കൂടാതെ അതിന് മുകളിൽ ഒരു മോണോപോൾ പോലെ ഇരിക്കുന്ന ഒരു കോ ആക്സിയൽ കേബിളാണ് പിന്നെ ഇമേജ് തിയറി വഴി എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ പ്രതിഫലനം കൊണ്ട് ഞാൻ ഗ്രൌണ്ടിനെ മാറ്റിസ്ഥാപിക്കുന്നു എന്നാൽ ഒരു കാര്യമുണ്ട് നമ്മൾ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ ഫലമായി എനിക്ക് ഇവിടെ ഒരു ചെറിയ കാന്തിക കറന്റ് ഉണ്ട് അതിനാൽ ഈ വസ്തുവിനെ മാഗ്നെറ്റിക് ഫ്രിൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഗ്രൌണ്ട് ആണ് കൂടാതെ ഇത് കോക്സിയൽ കേബിൾ ആണ് ഈ മാഗ്നെറ്റിക് ഫ്രിൽ ഇതിന് ചില സമവാക്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മുഴുവൻ നീളത്തിലും ലഭിക്കുന്നു ഈ ചർച്ചയിൽ നമ്മൾ ഇത് ഉപയോഗിക്കില്ല പക്ഷേ നിങ്ങൾക്ക് മാഗ്നെറ്റിക് ഫ്രില്ലിലേക്ക് നോക്കാൻ കഴിയുന്നത്ര പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അവസാനമായി മൂന്നാമത്തെ കാര്യം ഇവ രണ്ടും ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയ്ക്കുള്ളതാണ് സ്വീകരിക്കുന്ന ആന്റിനയ്ക്കും ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഇൻസിഡന്റ് തരംഗമുണ്ട് അത് ഒരു ഉറവിടത്തിന് തുല്യമായ ഒന്ന് ഉണ്ടാക്കും അതിനാൽ ഇതാ എന്റെ ആന്റിന ഇവിടെയുണ്ട് ഇവിടെ കുറച്ച് പ്ലെയിൻ തരംഗങ്ങൾ വീഴുന്നു അങ്ങനെയെങ്കിൽ വൈദ്യുത മണ്ഡലത്തിന്റെ മൂല്യത്തിന് തുല്യമായി ഞാൻ എന്ത് എഴുതും ഈ പ്ലെയിൻ തരംഗം മൊത്തത്തിൽ എല്ലായിടത്തും വീഴുകയാണ് അതിനാൽ ഈ കണ്ടക്ടറിന്റെ എല്ലാ പോയിന്റുകളിലും ഇതിനകം തന്നെ ഒരു ഫീൽഡ് ഉണ്ട് അതിന്റെ മൂല്യം അതിന്റെ മൂല്യത്തിന് തുല്യമായിരിക്കും ഒരു ചെറിയ പരിഷ്ക്കരണത്തോടെ ആ ഘട്ടത്തിലെ ഫീൽഡിന്റെ മൂല്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കുക അതിനു സമാനമായി ഞാൻ ഈ അരോകൾ വരച്ചിട്ടുണ്ട് ഈ അമ്പടയാളങ്ങൾ തരംഗ വെക്റ്ററുമായി പൊരുത്തപ്പെടുന്നു വൈദ്യുത മണ്ഡലം പൊതുവെ ഏത് വിധത്തിലായിരിക്കും E ഇതുപോലെയായിരിക്കും H ബോർഡിൽ ആയിരിക്കും അതിനാൽ ഇത് ഇതിന്റെ z ഘടകമായിരിക്കും കാരണം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് ഉപരിതലത്തിലോ ഇന്റീരിയറിലോ ആണ് നമ്മൾ ഇത് നടപ്പിലാക്കുന്നതെന്ന് ഓർമ്മിക്കുക കൂടാതെ z അക്ഷത്തിൽ മാത്രം നമ്മൾ z ഘടകത്തിലേക്ക് മാത്രമേ നോക്കൂ അതിനാൽ ഇത് മാറി അതാണ് ടേo ഇല്ലാതെ നിങ്ങളുടെ പ്ലെയിൻ തരംഗം അതെ നിങ്ങൾക്ക് വ്യത്യസ്ത ധ്രുവീകരണം ഉണ്ടെങ്കിൽ അതെ നിങ്ങൾക്ക് വ്യത്യസ്ത ധ്രുവീകരണം ഉണ്ടെങ്കിൽ ഈ ഡോട്ട് ഉൽപ്പന്നം വ്യത്യസ്തമായിരിക്കും കൂടാതെ ഇതിനകത്തു ഇതിലെ ഓരോ പോയിന്റിലും ഇത് പൂജ്യമല്ലാതാകും നിങ്ങളുടെ ഓരോ z അങ്ങനെയായിരിക്കും വിദ്യാർത്ഥി നമ്മൾക്ക് e നോട്ട് ഈ സംഭവ തരംഗത്തിന്റെ വിസ്തൃതിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം നൽകിയാലും അതെ നിങ്ങൾ അതിന്റെ z ഘടകം എടുത്താൽ മതി നിങ്ങളുടെ കോളം വെക്ടറിൽ മൂല്യങ്ങൾ ഇടുക കാരണം ഇവിടെ വരുന്ന അധിക ഇൻസിഡന്റ് അധിക വൈദ്യുത മണ്ഡലo ഇൻഡ്യൂസ്ഡ് കറന്റ് മൂലം ഉണ്ടാവുന്ന സ്കാറ്റേർഡ് ഫീൽഡ് അവയാണ് കണ്ടക്ടറിൽ ഉള്ള രണ്ട് ഫീൽഡുകൾ അവയുടെ ആകെത്തുക 0 ആയിരിക്കണം അതിനാൽ ഇത് ട്രാൻസ്മിഷൻ കേസിന് വേണ്ടിയായിരുന്നു ഇത് സ്വീകരിക്കുന്ന കേസിന് വേണ്ടിയുള്ളതാണ്